ഇതിലും ഇനി വരാൻ പോകുന്ന കുറച്ചു പാഠങ്ങളിലും വളരെ ഉപയോഗപ്രദമായ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അഥവാ ഓപ് ആമ്പ് എന്ന സർക്യൂട്ട് ബ്ലോക്കി നെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വാസ്തവത്തിൽ ഒരു നിയന്ത്രണ ഉറവിടമാണ് എന്നാൽ ഇതൊരു ഓപ് ആമ്പ് ആയി ഉപയോഗിക്കുമ്പോൾ ഇതിനെ വളരെ വളരെ ഉപകാരപ്രദം ആക്കുന്ന ചില സവിശേഷതകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത് പരക്കെ ഉപയോഗിക്കപ്പെടുന്നത് അതിനാൽ ചില ഓപ് ആമ്പ് സർക്യൂട്ടുകളും അവയുടെ വിശകലനം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും പൊതുവായി നമ്മൾ നോക്കാൻ പോകുകയാണ് ഇതിനെ പലപ്പോഴും ഓപ് ആമ്പ് എന്നാണ് ചുരുക്കി പറയാറുള്ളത് അങ്ങനെയെങ്കിൽ എന്താണ് ഇത് ഇതിനെ ഈ ചിഹ്നം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് ഇൻപുട്ടുകൾ ഉണ്ട് അതായത് ഇവിടെ ഒരു റഫറൻസ് നോഡ് ഉണ്ട് എന്ന് നിങ്ങൾ അനുമാനിക്കുകയാണെങ്കിൽ V 1 ഉം V 2 ഉം ആണ് നമ്മുടെ രണ്ട് ഇൻപുട്ടുകൾ അതായത് V 1 ഈ പോയിൻറിനും ഗ്രൌണ്ടി നും ഇടയിലുള്ള വോൾട്ടേജ് ആണ് V 2 ആ പോയിൻറിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് പിന്നെ V 0 അതിനും ഗ്രൌണ്ടിനും ഇടയിലാണ് A 0 മടങ്ങ് V 1 V 2 ആണ് ഈ V 0 സാധാരണ V 1 ഉം V 2 ഉം തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുന്നത് V d ഉപയോഗിച്ചാണ് അതിനാൽ V 0 ആശ്രയിക്കുന്നത് ഇതിൻറെ ഇൻപുട്ടുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ മാത്രമാണ് അതാണ് ഓപ് ആമ്പ് ഇപ്പോൾ ഈ നിർവ്വചനം കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് മറ്റൊന്നുമല്ല വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടമാണ് എന്നുള്ളത് ഇപ്പോൾ ഈ വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടത്തിൽ എങ്ങനെയാണ് എന്നാൽ ഇതിൻറെ ടെർമിനലുകൾക്ക് ഇടയിലുള്ള നിയന്ത്രിക്കുന്ന വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നത് V d ഉപയോഗിച്ചാണ് നിയന്ത്രിതമായ ഉറവിടത്തെ സൂചിപ്പിക്കുന്നത് A 0 മടങ്ങ് V d ഉപയോഗിച്ചാണ് പിന്നെ നിയന്ത്രിതമായ ഉറവിടത്തിൻറെ ഒരു ടെർമിനൽ അതായത് താഴെയുള്ള ടെർമിനൽ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചാണ് ഇതൊരു പൊതുവായ റഫറൻസ് വോൾട്ടേജ് ആണ് പിന്നെ ഇത് ഓപ് ആമ്പിൽ ആന്തരികമായി സംഭവിക്കുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു കണക്ഷൻ അല്ല അപ്പോൾ ഈ മൂന്ന് ടെർമിനലുകൾ ആണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് ഇതിനെ സൂചിപ്പിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്നത് പിന്നെ ഇതാണ് ഔട്ട്പുട്ട് അപ്പോൾ ഉള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതുപോലെ ഇതാണ് ടെർമിനൽ ഇതാണ് ടെർമിനൽ പിന്നെ അതാണ് ഔട്ട്പുട്ട് ടെർമിനൽ അപ്പോൾ ഇതാണു ഓപ് ആമ്പ് ഇതൊരു വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടമാണ് ഒരു സാധാരണ വോൾട്ടേജിനാൽ നിയന്ത്രിതമായ വോൾട്ടേജ് ഉറവിടത്തിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്നാൽ ഇതിൽ A 0 വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ വലിയ ഗെയിൻ ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടമാണ് ഓപ് ആമ്പ് എന്താണ് വളരെ വലുത് എന്നുള്ളത് സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കും ചില സന്ദർഭത്തിൽ 100 എന്നുള്ളത് ആവശ്യത്തിന് വലുതാണ് എന്നാൽ ചില സന്ദർഭത്തിൽ ദശലക്ഷം വരെ ആവശ്യം വരാം അതായത് ഇത് വളരെ വലുതാണ് എന്നുള്ളതാണ് ആശയം വാസ്തവത്തിൽ പതിവായി നമ്മൾ A 0 ക്ക് എടുക്കുന്ന പരിധി അനന്തതയാണ് പിന്നെ ഇനി വരാൻ പോകുന്ന പാഠങ്ങളിൽ ഒന്നിൽ നമ്മൾ A 0 അനന്തത ആകുമ്പോൾ ഉള്ള സന്ദർഭം കൈകാര്യം ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതാണ് വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടം അതായത് ഈ വോൾട്ടേജ് ഗ്രൌണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ V 1 ആണ് ഇതാണ് V 2 ഇപ്പോൾ വളരെ വലിയ ഗെയിൻ ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് V 1 V 2 ആണെങ്കിൽ V 1 V 2 പോസിറ്റീവാണ് അഥവാ V d പോസിറ്റീവാണ് എന്നാണ് അങ്ങനെയെങ്കിൽ V 2 നെക്കാൾ വലുതാണ് V 1 എങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഈ വോൾട്ടേജ് അഥവാ ഔട്ട്പുട്ട് V 0 വളരെ ശക്തമായി പോസിറ്റീവിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് എന്തുകൊണ്ടെന്നാൽ A0 വളരെ വലുതായതിനാൽ ഒരു ചെറിയ പോസിറ്റീവ് വ്യത്യാസം ആയ V 1 V 2 നു പോലും നിങ്ങൾക്ക് വളരെ വലിയ ഒരു പോസിറ്റീവ് ഔട്ട്പുട്ട് ലഭിക്കും ഇപ്പോൾ ഞാൻ വിവരിച്ചത് ഔട്ട്പുട്ട് V 0 വളരെ ശക്തമായി പോസിറ്റീവ്ലേക്ക് നയിക്കപ്പെടുന്ന കാര്യമാണ് അതുപോലെതന്നെ V 2 നെക്കാൾ ചെറുതാണ് V 1 എങ്കിൽ അപ്പോൾ ഈ വ്യത്യാസം V 1 V 2 0 ഈ V d 0 അപ്പോൾ ഔട്ട്പുട്ട് V 0 വളരെ ശക്തമായി നെഗറ്റീവ്ലേക്ക് നയിക്കപ്പെടുന്നു അപ്പോൾ ഇത് ഓപ് ആമ്പിൻറെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ സവിശേഷത ഉപയോഗിച്ചാണ് വളരെ ഉപകാരപ്രദമായ നെഗറ്റീവ് ഫീഡ്ബാക്ക് അധിഷ്ഠിതമായ ഒരു കൂട്ടം ഓപ് ആമ്പ് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നത് അപ്പോൾ എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്നാമതായി ഫീഡ്ബാക്ക് എന്നാൽ നിങ്ങൾ ഔട്ട്പുട്ട് നെ നയിക്കുന്നത് ഔട്ട്പുട്ട് നെ മറ്റേതെങ്കിലും അഭികാമ്യമായ വാല്യൂവുമായി താരതമ്യം ചെയ്തു ചില കണക്കുകൂട്ടലുകൾ ചെയ്തതിനുശേഷം ആയിരിക്കും അതാണ് ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫീഡ്ബാക്ക് എന്നാൽ ഔട്ട്പുട്ട് നെ നോക്കിയതിനുശേഷമാണ് നിങ്ങൾ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത് അതിൽനിന്ന് വ്യത്യസ്തമായി ആയി ഓപ്പൺ ലൂപ്പ് കണ്ട്രോൾ എന്നാൽ നിങ്ങൾ ഇൻപുട്ട് നിശ്ചയിക്കുന്നത് ഔട്ട്പുട്ട് നെ നോക്കാതെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാർ ഓടിക്കുന്നതിൻറെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇതിൽ ഓപ്പൺ ലൂപ് കണ്ട്രോൾ എന്നാൽ നമുക്ക് പറയാം ഒരു സ്പീഡോമീറ്റർ ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്കുള്ളത് സ്പീഡോമീറ്റർ ഇല്ലാത്ത വിചിത്രമായൊരു വാഹനമാണ് ഒരു നിശ്ചിതമായ വേഗം എത്തിയപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വേഗതയെ പറ്റി ഒരു അവ്യക്തമായ ആശയം ഉണ്ടാവുകയും അതിനായി നിങ്ങൾ ആക്സിലറേറ്റർ ഒരു പരിധിവരെ അമർത്തുകയും ചെയ്തു ഒരുപക്ഷേ പകുതിവരെ ഇപ്പോൾ നിങ്ങൾക്ക് വേഗത എത്രയാണെന്ന് യാതൊരു അറിവുമില്ല വാഹനം എത്രയാണോ തരുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ആക്സിലറേറ്റർ പകുതിവരെ അമർത്തുകയാണെങ്കിൽ ഒരു നിശ്ചിതമായ വേഗത കിട്ടും അത് വാഹനത്തിൻറെ പ്രത്യേകതകൾ റോഡിൻറെ പ്രത്യേകതകൾ ഫ്രിക്ഷൻ ആക്സിലറേറ്റർ അങ്ങനെ എല്ലാത്തിനെയും ആശ്രയിച്ചായിരിക്കും ഇപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ക്ലോസ്ഡ് ലൂപ്പ് കണ്ട്രോൾ എന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ വേഗത അളക്കും അതായത് സാധാരണമായ സ്പീഡോമീറ്റർ ഉള്ള ഒരു വാഹനം എത്ര വേഗതയിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾക്ക് സ്പീഡോമീറ്ററിൽ നോക്കിയിട്ട് ആക്സിലറേറ്റർ ക്രമീകരണങ്ങൾ നടത്താൻ കഴിയും അതായത് എത്ര അമർത്തണം എന്ന് തീരുമാനിക്കാൻ കഴിയും അതായത് വാഹനം ഒരു നിശ്ചിതമായ വേഗത്തിൽ പോകും ഉദാഹരണത്തിന് മണിക്കൂറിൽ 50 കിലോമീറ്റർ ഔട്ട്പുട്ടിൽ നോക്കിയിട്ടുള്ള രണ്ടാമത്തെ അവസ്ഥയിൽ നിങ്ങൾ പ്രവർത്തിച്ചത് ഒരു ഫീഡ്ബാക്കിൽ ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ മറ്റേ അവസ്ഥയിൽ നിങ്ങൾക്ക് വേഗതയെ പറ്റി ഒരു അറിവും ഇല്ലാതെ ആക്സിലറേറ്റർ അമർത്തുകയും നിങ്ങളൊരു ഓപ്പൺ ലൂപ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുകയും ആയിരുന്നു ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആണ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഓപ്പൺ ലൂപ് സിസ്റ്റത്തിനെക്കാളും കൂടുതൽ കൃത്യമായി നിങ്ങൾക്ക് വേഗത ക്രമീകരിക്കാൻ കഴിയും ഇതാണ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം നിർമ്മിക്കുന്നതിനുള്ള പ്രചോദനം അതായത് നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഒരു ആംപ്ലിഫയർ നിർമിക്കണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചുള്ള V 0 സമം k മടങ്ങ് V i ഉള്ള ഒരു ആംപ്ലിഫയർ ആണ് എനിക്ക് നിർമ്മിക്കേണ്ടത് ഞാൻ ഈ ബന്ധത്തെ ഇങ്ങനെ പുനക്രമീകരിക്കാൻ പോവുകയാണ് അതായത് V 0k സമം V i ഇപ്പോൾ ഓപ് ആമ്പ് എന്നെ എങ്ങനെയാണ് സഹായിക്കുന്നത് ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ V 0 k മനസ്സിലാക്കും ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് കുറച്ചു സമയത്തിനുള്ളിൽ കാണിച്ചുതരാം V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ വലുതാണെങ്കിൽ ഞാൻ V 0 നെ ശക്തമായി കൂട്ടും V 0 എന്ന അളവാണ് എനിക്ക് നിയന്ത്രിക്കേണ്ടത് ഇത് എൻറെ ഔട്ട്പുട്ട് ആണ് എന്നാൽ V i ഇൻപുട്ട് ആണ് അപ്പോൾ V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ വലുതാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് V 0 വളരെ ചെറുതാണ് എന്നാണ് അതിനാൽ ഞാൻ ഇതിനെ ശക്തമായി കൂട്ടും എങ്ങനെയെന്നാൽ ഇത് വലത് ദിശയിലേക്ക് നീങ്ങും എന്നാൽ V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ ചെറുതാണെങ്കിൽ ഞാനതിനെ കുറയ്ക്കും അപ്പോൾ V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ ചെറുതാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് V 0 വളരെ വലുതാണ് എന്നാണ് അതിനാൽ എനിക്കത് കുറയ്ക്കേണ്ടതുണ്ട് നേരത്തെ ഞാൻ ഓപ് ആമ്പിനെ പറ്റി വിശദീകരിച്ചിട്ടുള്ളത് V d പൂജ്യത്തിനേക്കാൾ വലുതാണെങ്കിൽ ഔട്ട്പുട്ട്നെ വളരെ ശക്തമായി പോസിറ്റീവ് ലേക്ക് ഉയർത്തുകയും V d പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ ഔട്ട്പുട്ട്നെ വളരെ ശക്തമായി നെഗറ്റീവ് ലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഒന്ന് എന്നാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എന്തിനുവേണ്ടിയാണോ നോക്കിയിരുന്നത് അത് അടിസ്ഥാനപരമായി നിറവേറ്റപ്പെടുന്നുണ്ട് അതിനാൽ വളരെ വലിയ ഗെയിൻ ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടമായ ഓപ് ആമ്പ് ഉപയോഗിച്ച് ഈ ആംപ്ലിഫയർ നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് V 0 ആയിരിക്കണം V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ വലുതാണെങ്കിൽ V 0 നെ ശക്തമായി കൂട്ടണം അതായത് അതിനെ ശക്തമായി ആയി പോസിറ്റീവ്ലേക്ക് ഉയർത്തണം അതിനാൽ V i യെ എനിക്ക് ഒരു ടെർമിനലിലേക്കും V 0 k നെ മറ്റൊരു ടെർമിനലിലേക്കും കൊടുക്കണം അതിനാൽ ഈ പൊളാരിറ്റിയിൽ ആണ് ഓപ് ആമ്പ് V i V0 k നോട് പ്രതികരിക്കുക ഇതിനു സമാനമായി V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ ചെറുതാണെങ്കിൽ ഓപ് ആമ്പ് V 0 നെ ശക്തമായി കുറയ്ക്കും അതായത് ഇതിനെ ശക്തമായി നെഗറ്റീവ് ലേക്ക് കുറയ്ക്കും ഇതുതന്നെയാണ് കൃത്യമായി നമുക്ക് വേണ്ടത് ഈ സർക്യൂട്ട് പൂർത്തീകരിക്കാൻ ഇനി നമുക്കു വേണ്ട ഒരേ ഒരു കാര്യം എങ്ങനെ V 0 k കണ്ടുപിടിക്കും എന്നുള്ളതാണ് അത് V 0 യുടെ ഒരു അംശമാണ് ഓർക്കുക നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഒരു ആംപ്ലിഫയർ ആണ് അതിനാൽ k ഒന്നിനേക്കാൾ വലുതാണ് അതിനാൽ V 0 k എന്നുള്ളത് V 0 നേക്കാൾ ചെറുതായിരിക്കും ഇപ്പോൾ ഒരു റസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു വലിയ വോൾട്ടേജ് നിന്നും ഒരു ചെറിയ വോൾട്ടേജ് ഉത്പാദിപ്പിക്കാൻ സാധിക്കും അതിനാൽ ഞാനൊരു റസിസ്റ്റീവ് ഡിവൈഡർ ഇങ്ങനെ നിർമിക്കുകയാണെങ്കിൽ അതായത് മുകളിലത്തെ റെസിസ്റ്റർ k 1 മടങ്ങ് താഴെത്തെ റെസിസ്റ്റർ എങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് V 0 k ആണ് അതിനാൽ എനിക്ക് ഇവിടെ അതായത് എവിടെയാണോ V 0 k വേണ്ടത് അവിടെനിന്ന് കണക്ഷൻ എടുക്കാം അങ്ങനെ എൻറെ സർക്യൂട്ട് പൂർത്തിയാകും അതിനാൽ ഞാൻ ഈ സർക്യൂട്ട് നിർമ്മിച്ചിരിക്കുന്ന ആശയം എന്തെന്നാൽ V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ വലുതാണെങ്കിൽ V 0 നെ ശക്തമായി കൂട്ടണം അതുപോലെ V i എന്ന വോൾട്ടേജ് V 0 k നെക്കാൾ ചെറുതാണെങ്കിൽ V 0 നെ ശക്തമായി കുറയ്ക്കണം എൻറെ കയ്യിൽ ഉള്ളത് വളരെ വലിയ ഗെയിൻ ഉള്ള വോൾട്ടേജിനാൽ നിയന്ത്രിതമായ ഒരു വോൾട്ടേജ് ഉറവിടമായ ഔട്ട്പുട്ട് നെ വളരെ ശക്തമായ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഓപ് ആമ്പാണ് ആണ് അതിനാൽ ഞാൻ ഇതിനെ ഇങ്ങനെ യാഥാർഥ്യമാക്കി എങ്കിൽ ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ സർക്യൂട്ട് വിശകലന രീതികൾ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ചില അവബോധത്തെയും നെഗറ്റീവ് ഫീഡ്ബാക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില കാരണങ്ങളാൽ വ്യതിചലിച്ചു എങ്കിലും നമുക്ക് നമ്മുടെ വിശകലനം ജ്ഞാനം ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം തുടക്കത്തിൽ ഓപ് ആമ്പിൻറെ ചിഹ്നത്തെ പറ്റി നിങ്ങൾ കുറച്ച് ആശയക്കുഴപ്പത്തിൽ ആണെങ്കിൽ ഒരു നിയന്ത്രണ ഉറവിടത്തിൻറെ ചിഹ്നം പകരം ഉപയോഗിക്കാവുന്നതാണ് ഇത് A 0 V d ആണ് പിന്നെ ഈ വോൾട്ടേജ് V d ആണ് മൂന്ന് ടെർമിനലുകൾ ഉള്ള ഒരു നിയന്ത്രണ ഉറവിടം ഓപ് ആമ്പിനു പകരം വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അതായത് അത് ഓപ് ആമ്പിൻറെ ഇവിടെ ഇവിടെ പിന്നെ അവിടെ എന്നത് യഥാക്രമം ഇത് അത് പിന്നെ അതിനോട് തുല്യമായിരിക്കും അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉള്ള ഒരു സർക്യൂട്ട് വിശകലനമാണ് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് V 0 എന്നത് A 0 V d ആണ് എന്നാൽ V d അജ്ഞാതമാണ് പക്ഷേ നമുക്ക് അറിയാം V d എന്നത് k ആണ് അതിനാൽ ഈ വ്യത്യാസം ഇവിടെ k ആണ് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V 0 എന്നത് A 0 മടങ്ങ് V d ആണ് അത് A 0 മടങ്ങ് k ആണ് അതിനാൽ V 0 ഉള്ള പദങ്ങൾ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുപാതം ഇതാണ് V 0 V i സമം A 0 1 A 0 k അത് ഇങ്ങനെയും എഴുതാം k 1 k A 0 ഇപ്പോൾ എൻറെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്നാൽ ഗെയിൻ k ഉള്ള ഒരു ആംപ്ലിഫയർ നിർമ്മിക്കുക എന്നായിരുന്നു അതായത് ഉദ്ദേശിച്ച ഫംഗ്ഷൻ ഇതാണ് V 0 V i സമം k ഇപ്പോൾ എൻറെ കയ്യിൽ ഉള്ളത് കൃത്യമായി ഇതല്ല പക്ഷേ അത് സൂക്ഷ്മമായ പരിശോധനയിൽ നിങ്ങൾക്ക് കാണാം അതായത് k A 0 ഒന്നിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ ഇത് ഏകദേശം k ക്ക് സമം ആണ് അപ്പോൾ ഇവിടെയാണ് A 0 വളരെ വളരെ വലുതായിരിക്കേണ്ടതിൻറെ പ്രാധാന്യം വരുന്നത് ഓപ് ആമ്പിൻറെ ഗെയിൻ A 0 വളരെ വലുതാണ് അതിനാൽ k യുടെ മൂല്യം വളരെ ചെറുതാണെങ്കിൽ ഉദാഹരണത്തിന് A 0 എന്നത് ഒരു ദശലക്ഷവും നിങ്ങളുടെ k നൂറും ആണെങ്കിൽ ഈ k A 0 ഒന്നിനേക്കാൾ വളരെ ചെറുതായിരിക്കും അതായത് k A 0 എന്നത് 1 1000000 ആണ് ഇത് ഒന്നും ആയി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ആംപ്ലിഫയർ ഗെയിൻ V 0 V i സമം k 1 k A 0 ഏകദേശം k ആണ് ഇത് യാഥാർഥ്യമാവുന്നത് ഓപ് ആമ്പിൻറെ ഗെയിൻ A 0 വളരെ വലുതാകുമ്പോൾ ആണ് അതിനാൽ വളരെ വലിയ ഗെയിൻ ഉള്ള ഓപ് ആമ്പിൻറെ ആവശ്യകത ഇതാണ് പിന്നെ ഈ ആംപ്ലിഫയർ ഗെയിൻ k ആണ് അത് റെസിസ്റ്ററുകൾ തമ്മിലുള്ള അനുപാതത്തെ മാത്രം ആശ്രയിച്ചാണ് ഉള്ളത് ഇത് ഈ റെസിസ്റ്റർ നെയും ആ റെസിസ്റ്റർ നെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഓപ് ആമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ് ഇത് നമുക്ക് ഫീഡ്ബാക്കിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗെയിൻ k നോട് വളരെ വളരെ അടുത്തുനിൽക്കുന്ന ഒരു ആംപ്ലിഫയർ നെ തരുന്നു അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട്നെ പറ്റി ചില പെട്ടെന്നുള്ള വിശകലനങ്ങൾ ചെയ്യാം ഞാൻ മുകളിലുള്ള റെസിസ്റ്റൻസ് കൊടുത്ത മൂല്യം R ആണ് താഴെയുള്ളതിന് R ആണ് കൊടുത്തത് പിന്നെ ഇതിൻറെ യഥാർത്ഥ ഗെയിൻ k 1 k A 0 ആണ് ഇതിൽ A 0 എന്നത് ഓപ് ആമ്പിൻറെ ഗെയിൻ ആണ് അതായത് ഈ വോൾട്ടേജ് വ്യത്യാസം V d ആണെങ്കിൽ ഔട്ട്പുട്ട് V 0 എന്നുള്ളത് A 0 മടങ്ങ് V d ആയിരിക്കും പിന്നെ A 0 വളരെ വളരെ വലുതാണെങ്കിൽ ഈ ഗെയിൻ ഏകദേശം k ആയിരിക്കും ഇത് സംഭവിക്കുന്നത് A 0 k ഒന്നിനേക്കാൾ വളരെ വലുതാകുമ്പോൾ ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഭിന്നസംഖ്യാഛേദം ഏകദേശം ഒന്നും ഗെയിൻ k യും ആയിരിക്കും ഈ പ്രത്യേകമായ സർക്യൂട്ടാണ് ശ്രേഷ്ഠ മാതൃകാ ഓപ് ആമ്പ് സർക്യൂട്ട് ആയ നോൺ ഇൻവർട്ടിംഗ് ആംപ്ലിഫയർ ഇത് വളരെ സാധാരണമായി പുസ്തകങ്ങളിൽ കാണാറുണ്ട് റെസിസ്റ്റർൻറെ പ്രതീകങ്ങളിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഇതാണ് R 2 ഉം R 1 ഉം ഈ സർക്യൂട്ട് കൃത്യമായി അതുതന്നെയാണ് അതിനാൽ R 2 R 1 മറ്റൊന്നുമല്ല അത് ഈ റെസിസ്റ്ററും ആ റെസിസ്റ്ററും തമ്മിലുള്ള അനുപാതം ആണ് അത് k 1 ആണ് റെസിസ്റ്ററുകൾ R 2 എന്നും R 1 എന്നും സൂചിപ്പിക്കുകയാണ് എങ്കിൽ നോൺ ഇൻവർട്ടിംഗ് ആംപ്ലിഫയർ ഗെയിൻ V 0 V i എന്നുള്ളത് അതെ സൂത്രവാക്യം ഉപയോഗിച്ച് എഴുതാം ഞാനിവിടെ k യെ സൂചിപ്പിക്കാൻ പോകുന്നത് R 2 ഉം R 1 ഉം ഉപയോഗിച്ചാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും k എന്നുള്ളത് 1R2R1 ആണ് അതിനാൽ ഗെയിൻ 1R2R1 മടങ്ങ് 111R2R1A0 ആണ് ഓപ് ആമ്പ് ഗെയിൻ A0 വളരെ വലുതാണെങ്കിൽ അത് ഏകദേശം 1R2R1 ആണ് ഓപ് ആമ്പ് സർക്യൂട്ടുകളെ പറ്റി അറിവുള്ള നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഈ സൂത്രവാക്യം പരിചിതം ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഔട്ട്പുട്ട്നെ മനസ്സിലാക്കി ഔട്ട്പുട്ടിൻറെ ഒരു അംശം എടുത്ത് ഇൻപുട്ടുമായി താരതമ്യം ചെയ്തു അതിൻറെ വ്യത്യാസത്തിൻറെ അടിസ്ഥാനത്തിൽ ഔട്ട്പുട്ട് വളരെ ശക്തമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കും എന്നുള്ളതാണ്